ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി സൈനസോയ്ഡൽ സിഗ്നലിന്റെ ഫേസർ റെപ്രെസെന്റഷൻ എങ്ങിനെയാണെന്ന് നമുക്ക് കാണാം ഇവിടെ വാസ്തവത്തിൽ ന്യൂമെറിക്കൽസ് പരിഹരിക്കുന്നതിനോ ആശയങ്ങൾ നേടുന്നതിനോ നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടതാണ് അതിനാൽ ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു സൈനസോയ്ഡൽ സിഗ്നൽ ഫേസർ sinusoidal signalphasor റെപ്രെസെന്റഷൻ പരിശോധിക്കുകയാണെങ്കിൽ OA എന്നത് ആരം OA ആണെന്ന് കരുതുക ഇത് O എന്ന വൃത്തത്തിന്റെ കേന്ദ്രമാണെന്ന് കരുതുക അപ്പോൾ OA സൈനസോയ്ഡൽ ക്വാണ്ടിറ്റിയുടെ പരമാവധി മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് കറന്റായിരിക്കാം വോൾട്ടേജായിരിക്കാം ഇപ്പോഴത്തെ പൊസിഷനിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ ചലിക്കുന്നു ആ ലംബ പ്രൊജക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് A B ആണ് നമുക്ക് അത് ക്ലിയർ ചെയ്യാം A B എന്ന് പറയുക ഇത് ഒരു ലംബ പ്രൊജക്ഷൻ ആണ് A B എന്നത് O A ന് തുല്യമാണ് ഇത് sin θ ആണ് ഒരു സിനുസോയ്ഡൽ ക്വാണ്ടിറ്റിയുടെ പരമാവധി മൂല്യമാണ് OA ഉദാഹരണത്തിന് ഈ സിഗ്നൽ O A i ന് തുല്യമാണെന്ന് കരുതുക ഇതാണ് ഇപ്പോഴത്തെ സിഗ്നൽ i ഇത് പരമാവധി മൂല്യം എന്ന് പറയും O A എന്നത് m ന് തുല്യമാണ് അത് കറന്റിന്റെ പരമാവധി മൂല്യമാണ് കറന്റിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം അതായത് m sin θ കൂടാതെ ഈ A B ആണ് m എന്ന പരമാവധി മൂല്യം A B m sin ഇനി നമുക്ക് അത് മായ്ക്കാം അതിന്റെ അർത്ഥം ഇതിന്റെ ലംബമായ പ്രൊജക്ഷൻ A B m sin θ ക്കു തുല്യമാണ് ഇപ്പോൾ θ0 ന് തുല്യമാകുമ്പോൾ A B എന്നത് 0 ന് തുല്യമാണ് അതിനാൽ θ0 ന് തുല്യമാകുമ്പോൾ അത് ഒരു പ്രൊജക്ഷൻ ആക്കി മാറ്റുക ഇത് ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ θ എന്നതിന്റെ മറ്റൊരു മൂല്യം എടുത്താൽ ഈ ആംഗിൾ θ ആണ് ഇത് AB m sinθ ക്കു തുല്യമാണ് ഇവിടെ മറ്റൊരു പോയിന്റ് എടുക്കുക അതുപോലെ ഇവിടെ എവിടെയെങ്കിലും മറ്റൊരു പോയിന്റ് എടുക്കാൻ കഴിയും ഇവിടെ θ വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും ഈ പോയിന്റിന്റെ കാര്യം എടുത്താൽ OA ഒരു പോയിന്റ് ആണ് ഈ OA ഇവിടെ വരും ഇവിടെ മറ്റൊരു പോയിന്റ് എടുക്കും അതുപോലെ θ 90 o ന് തുല്യമാകുമ്പോൾ A B m ന് തുല്യമാണ് അതിനാൽ ഇവിടെ ഒരു പ്രൊജക്ഷൻ എടുക്കുക ഇതാണ് പരമാവധി മൂല്യം ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇതുപോലെ വരും ഇതിനപ്പുറം പോകുമ്പോൾ അതാണ് 90 o എന്നതിനെക്കാൾ കൂടുതൽ ennu വിളിക്കുന്നത് പിന്നെ വീണ്ടും പ്രൊജക്ഷൻ എടുക്കുക പോയിന്റ് ഇവിടെ വന്നാൽ ഈ വശം വർദ്ധിക്കുന്നു അതുപോലെ θ 900 ൽ കൂടുതലാകുമ്പോൾ ഈ പോയിന്റ് ഇവിടെ വരും അതുപോലെ ഇത് ഇവിടെ വരുമ്പോൾ ഈ പോയിന്റ് ഇവിടെ വരും ഒടുവിൽ അത് വരുമ്പോൾ θ 80o ആവുമ്പോൾ അത് വീണ്ടും 0 ആണ് ഈ പോയിന്റുകളെല്ലാം എടുത്ത് പ്ലോട്ട് ചെയ്താൽ അതൊരു സൈൻ കർവ് ആയിരിക്കും ഇവിടെ OA റൊട്ടേറ്റ് ചെയ്യുന്നു അത് ഇവിടെ ചില സ്ഥാനങ്ങളിലേക്ക് പിന്നെ ഇവിടെ ചില പൊസിഷൻസ് അങ്ങിനെ അങ്ങിനെ ഈ രീതിയിൽ അത് നീങ്ങും ഇത് ഒരു 80o ആണ് അപ്പോൾ ഇത് 270 o ആണ് ഇവിടെ എത്തുമ്പോൾ അത് 360 o ആണ് അതിനാൽ ഇത് ഇതുപോലെ നീങ്ങുന്നു ഇതാണ് 90 o ആണ് ഇത് എന്റെ ഒരു 80 o ആണ് ഈ പോയിന്റ് 270 o ആണ് ഒടുവിൽ ഈ പോയിന്റ് 360 o ആണ് അതിനാൽ ഈ വശത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ മൂല്യം നെഗറ്റീവ് ആകും അതിനാൽ ഈ പോയിന്റിനായി ഇത് ഇവിടെ എവിടെയോ ആയിരിക്കും ഈ പോയിന്റിൽ നിന്ന് ഇത് ഈ രീതിയിൽ വരും ഒടുവിൽ 360o വരെ ചെയ്താൽ അത് ഒരു സൈനസോയ്ഡൽ ആയിരിക്കും ഇതിനർത്ഥം ഈ വിധത്തിൽ ഏത് വോൾട്ടേജിന്റെയും കറന്റിന്റെയും മാക്സിമം വാല്യൂ എടുക്കുന്നു തുടർന്ന് എതിർ ഘടികാരദിശയിൽ നീങ്ങുന്നു അതനുസരിച്ച് θ യുടെ മൂല്യം 00 മുതൽ 360o വരെ വർദ്ധിക്കുന്നു ഇതുപോലുള്ള പ്ലോട്ടും OA യും AB യുടെ ലംബ പ്രൊജക്ഷനും OS sin θ ക്ക് തുല്യമാണെങ്കിൽ അതായത് AB m sinθ ന് തുല്യമാണ് ഇവിടെയുള്ള ഓരോ പോയിന്റും എടുത്തു പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സൈനുസോയിടൽ സിഗ്നൽ ആയിരിക്കും ഒരു സൈനസോയ്ഡൽ സിഗ്നലിന്റെ ഒരു ഫേസറിന്റെ പ്രാതിനിധ്യം ഇങ്ങനെയാണ് അതായത് ഫേസർ യഥാർത്ഥത്തിൽ ഭ്രമണം ചെയ്യുന്ന ഒരു വെക്റ്ററാണ് 00 നും 360o നും ഇടയിലുള്ള കോണീയ രേഖ കാരണം അത് ഒന്നുകിൽ ഘടികാരദിശയിൽ അല്ലെങ്കിൽ എതിർ ഘടികാരദിശയിൽ ഭ്രമണം ചെയ്യുന്ന വെക്റ്ററാണ് ഇതിനർത്ഥം വോൾട്ടേജ് ഈ രീതിയിൽ എഴുതുമ്പോൾ V ഫേസർ അളവാണ് നമുക്ക് അത് ക്ലിയർ ചെയ്യാം ഇംപെഡൻസ് z എന്നത് r jx ന് തുല്യമാണ് അതിനാൽ പ്രതിരോധം z ബാർ ഇടുക ഇംപെഡൻസ് ഒരു ഫേസർ അളവല്ല മറിച്ച് വോൾട്ടേജും കറന്റും ഫേസർ അളവുമാണ് കൂടാതെ ഫേസർ ഒരു ഭ്രമണം ചെയ്യുന്ന വെക്റ്ററാണ് ആ സൈനുസോയിടൽ ജനറേഷനും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു Ω 2πf ന് തുല്യമാണ് അതിനാൽ ഇത് m sin 2πf t എന്ന് എഴുതിയിരിക്കുന്നു ഈ പ്രയോഗം ഇവിടെയുണ്ട് അതിനാൽ അടുത്തത് ഇതാണ് അപ്പോൾ ഇതാണ് എക്സ്പ്രെഷൻ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് പിന്നീട് വായിക്കുന്നതും എന്നാൽ കേൾക്കുന്നതും വ്യത്യസ്തമാണ് കറന്റും വോൾട്ടേജ് വേവ് ഫോമും ഉണ്ടെന്ന് കരുതുക ഇതാണ് വോൾട്ടേജ് തരംഗ രൂപമെന്ന് വിളിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ആന്തരിക വൃത്തം ഇതാണ് പരമാവധി മൂല്യം അതായത് OB എന്നത് ഒരു പ്രത്യേക സമയത്ത് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിന്റെ പരമാവധി മൂല്യമാണ് അതായത് ഉദാഹരണത്തിന് Vm ഇതാണ് വോൾട്ടേജ് z ഇവിടെത്തെ സ്കെയിൽ നാം തത്ക്കാലം മറന്നേക്കുക OA ആ സമയത്തെ കറന്റിന് തുല്യമാണ് ഈ വോൾട്ടേജും ഈ വൈദ്യുതധാരയും തമ്മിലുള്ള ഈ കോൺ അത് ϕ ആണ് ഇപ്പോൾ സമാനമായ രീതിയിൽ ഇവ രണ്ടും എതിർ ഘടികാരദിശയിൽ കറങ്ങുന്നു ഇവിടെ ω നൽകിയിരിക്കുന്നു അതിനാൽ ω 2πf ആണ് F ആവൃത്തിയാണ് അതിനാൽ അത് എതിർ ഘടികാരദിശയിൽ കറങ്ങുന്നു ഇപ്പോൾ നമ്മൾ ശരാശരിയിൽ നിന്നും വൈദ്യുത തരംഗത്തിൽ നിന്നും വോൾട്ടേജ് തരംഗം എടുക്കുകയാണെങ്കിൽ OA നിലവിലെ സ്ഥാനം A യിലും വോൾട്ടേജ് V ലും ഈ ϕ ലും ആയിരുന്നു എന്ന് കരുതുക അവർ എതിർ ഘടികാരദിശയിൽ ആണ് നീങ്ങുന്നത് ω യെ ആവൃത്തി എന്ന് വിളിക്കുന്നു അതിനാൽ f എന്നത് ആവൃത്തിയും ω 2πf ന് തുല്യവുമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് നീങ്ങുമ്പോൾ അതിനർത്ഥം B യും A യും തമ്മിലുള്ള കോണിന്റെ സ്ഥാനകോണായ ϕ സ്ഥിരമായി നിലനിൽക്കും എന്നാണ് ഉദാഹരണത്തിന് B ഇവിടെ എവിടെയോ A ഇവിടെ എവിടെയോ ആണെന്ന് കരുതുക ഈ ആംഗിൾ എപ്പോഴും സ്ഥിരമായി തുടരും കാരണം രണ്ടും ഒരുമിച്ച് നീങ്ങുന്നത് എതിർ ഘടികാരദിശയിൽ ആണ് എന്നാലും ഇവിടെ ആവൃത്തി ഒന്നുതന്നെയാണ് ആ സാഹചര്യത്തിൽ ഇവിടെ എന്ത് സംഭവിക്കും ഞങ്ങൾ ഈ പോയിന്റിൽ നിന്ന് വോൾട്ടേജിന്റെ പ്രൊജക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ ചില പോയിന്റുകൾ ഉണ്ടാകും എപ്പോഴാണ് 90 o ൽ കൂടുതൽ എത്തുന്നത് ഇത് ഒരു ഉയർന്ന മൂല്യം Vm ആണ് അത് അവസാനം 0 ൽ എത്തിച്ചേരും വീണ്ടും ഇത് ഇതുപോലെ നീങ്ങും അതുപോലെ ഈ O A എടുക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഇതാണ് θ 0 എന്ന് വിളിക്കുന്നത് ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ പോയിന്റ് അത് ആരംഭിക്കും ആ രീതിയിൽ ഈ കറന്റ് തരംഗം സിനോസോയ്ഡൽ ഒന്നായിരിക്കും എന്നാൽ ഈ സമയത്ത് θt അല്ലെങ്കിൽ θ0 ക്കു തുല്യമാണെങ്കിൽ നിലവിലെ തരംഗരൂപം അവിടെ നിന്ന് ആരംഭിക്കും കാരണം വോൾട്ടേജ് ഇവിടെ നിന്ന് ആരംഭിക്കും ഈ രീതിയിൽ ഈ സിനോസോയ്ഡൽ വേവ് ഫോമും വോൾട്ടേജും വൈദ്യുതധാരയും രണ്ടും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് കരുതുക എന്നാൽ ഇവ രണ്ടും തമ്മിലുള്ള കോൺ അതേപടി നിലനിൽക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഈ കാര്യം വോൾട്ടേജിലും കറന്റിലും 2 അളവുകൾ എടുത്തിട്ടുണ്ട് പ്രതിനിധാനം ചെയ്തO B O A എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു ഇവിടെ കാണിക്കുന്നത് ഫാസർ O B ആണ് നിലവിലെ ഫേസർ ഡയഗ്രം നയിക്കുന്നതെന്താണെന്നോ എന്താണ് അർത്ഥമാക്കുന്നതെന്നോ ഒരു ലീഡിംഗ് അല്ലെങ്കിൽ ലാഗിംഗ് എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ആ v തുല്യമാണെങ്കിൽ ആദ്യം നയിക്കുന്നതും പിന്നാക്കം നിൽക്കുന്നതും മനസ്സിലാക്കണം തുടർന്ന് ഇതിലേക്ക് വരും അതിനാൽ ആദ്യം അത് വ്യക്തമാക്കുക ഇപ്പോൾ ചോദ്യം എന്താണ് നയിക്കുന്നത് എന്നതാണ് ഈ 2 തരംഗ രൂപങ്ങളിൽ നിന്ന് ഒരാൾ എത്തുന്നത് ഏറ്റവും ഉയർന്ന മൂല്യമാണ് വ്യാപ്തിയെക്കുറിച്ച് മറക്കുക മറ്റൊന്ന് അതിലേക്ക് എത്തുന്ന മറ്റൊന്ന് മറ്റൊന്നിനേക്കാൾ ഉയർന്ന മൂല്യമാണ് ഈ സാഹചര്യത്തിൽ ഇത് വോൾട്ടേജ് തരംഗ രൂപമാണ് ഇത് കറന്റിന് മുമ്പായി ഉയർന്ന മൂല്യത്തിൽ എത്തുന്നു കാരണം അത് ഉയർന്ന മൂല്യത്തിലെത്തുമ്പോൾ കറന്റ് ഇവിടെയുണ്ട് അതിനാൽ വോൾട്ടേജ് യഥാർത്ഥത്തിൽ കറന്റിന് മുമ്പായി അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ എത്തുന്നു ഏതാണ് ആദ്യം 0 ലേക്ക് വരുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വൈദ്യുതധാരയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോൾട്ടേജ് ആദ്യം 0 ലേക്ക് വരുന്നു അതിനാൽ 2 വഴികൾ ചെയ്യാൻ കഴിയും ഈ സാഹചര്യത്തിൽ പീക്ക് കറന്റിനെക്കാളും മുൻപേ വോൾട്ടേജ് പീക്ക് ആണ് എത്തുന്നത് അതായത് വൈദ്യുതധാരയെ നയിക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആദ്യം വോൾട്ടേജ് ആദ്യം 0 ലേക്ക് വരുന്നു തുടർന്ന് കറന്റ് അതായത് വോൾട്ടേജാണ് വൈദ്യുതധാരയെയും ഈ കോണിനെയും നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ആംഗിൾ ϕ ഈ വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോൺ ഇതാണ് ഇതാണ് ആംഗിൾ π അഥവാ പീക്ക് ഡിഫറെൻസ്സ് ഈ ആംഗിൾ വ്യത്യാസം ϕ ആണ് അതിനാൽ ലീഡിംഗ് എന്നാൽ നമുക്ക് ഒരു വോൾട്ടേജും കറന്റ് വേവ് ഫോംസ് ഉണ്ടെന്ന് കരുതുക വോൾട്ടേജ് അതിന്റെ പീക്ക് വാല്യൂവിൽ കറന്റ്നെക്കാളും മുൻപ് എത്തികയാണെങ്കിൽ വോൾട്ടേജ് കറന്റിനെ ലീഡ് ചെയ്യുന്നു എന്ന് പറയും അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന് മുമ്പ് വോൾട്ടേജ് 0 ൽ എത്തുകയാണെങ്കിൽ അതിനർത്ഥം വോൾട്ടേജ് കറന്റിനെ ലീഡ് ചെയ്യുന്നു എന്നാണ് മറ്റൊരു വഴി ആ വൈദ്യുതധാര വോൾട്ടേജിനെക്കാൾ പീക്ക് വാല്യൂവിൽ എത്തുന്നു അതായത് വോൾട്ടേജിൽ നിന്ന് കറന്റ് ലാഗ് ചെയ്യുന്നു അല്ലെങ്കിൽ വോൾട്ടേജിന് ശേഷമുള്ള 0 ആകുന്നതിനോ അല്ലെങ്കിൽ വോൾട്ടേജിൽ നിന്ന് വൈദ്യുതധാരകൾ ലാഗ് ചെയ്യുന്നതിനോ മുമ്പ് കറന്റ് 0 ൽ എത്തുന്നു അതിനാൽ ഒന്നുകിൽ ഈ ദൂരം ϕ ആണ് അല്ലെങ്കിൽ ഈ ദൂരം പപീക്ക് ഡിസ്റ്റൻസിൽ എത്താൻ കഴിയും വോൾട്ടേജ് നയിക്കുന്നതിനാൽ കറന്റിന്റെ ഈ കോണിനെ ϕ എന്ന് വിളിക്കും അതിനാൽ ഇത് എന്റെ ഇപ്പോഴത്തെ കറന്റ് സിഗ്നലാണ് അതിനർത്ഥം v Vm sin ωt ഇതാണ് കറന്റ് സിഗ്നൽ sinωt എന്ന് വിളിക്കുന്നത് കൂടാതെ θωt ന് തുല്യമാണ് ഇതാണ് കറന്റ് സിഗ്നൽ പക്ഷേ വോൾട്ടേജിന്റെ കാര്യത്തിൽ ഈ ആംഗിൾ ϕ ലീഡ് ചെയ്യുകയാണ് ഈ കറന്റ് m sin ωt ആണ് അതിനാൽ ഇത് വൈദ്യുത പ്രവാഹത്തിന്റെ തരംഗരൂപമാണ് ഇനി വോൾട്ടേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഈ കറന്റിനെ ϕ കൊണ്ട് നയിക്കുന്നു അതിനാൽ വോൾട്ടേജിന് v Vm sinωtϕ എന്ന് എഴുതാൻ കഴിയും കാരണം θ ഇങ്ങനെയാണ് നീങ്ങുന്നത് ഈ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് അതിനാൽ ഇത് sinωtϕ ആയിരിക്കും കാരണം വോൾട്ടേജ് വൈദ്യുതധാരയെ നയിക്കുന്നു അതിനാൽ ϕ ആംഗിൾ പോസിറ്റീവ് ആയിരിക്കണം അതിനാൽ Vm sin ω t ന് തുല്യമാണ് ഇതിനർത്ഥം ഫേസറിൽ ഇത് m sinωt ന് തുല്യമാണ് ഈ രീതിയിൽ എഴുതുക അതിനർത്ഥം ഇവിടെ rms മൂല്യം യഥാർത്ഥത്തിൽ m√ 2 ആണ് ഇതാണ് കറന്റിന്റെ rms മൂല്യം നമുക്ക് എഴുതാം m√ 2 എന്നത് ഒരു ആംഗിൾ 0 o ക്കു തുല്യമാണ് ഇത് ഇങ്ങിനെ എഴുതാൻ കഴിയും ഇവിടെ ഫേസർ ക്വാണ്ടിറ്റിയെ റെപ്രെസെന്റ് ചെയ്യാനായി നമുക്ക് ഒരു ആരോ ഉപയോഗിക്കാം ഇവിടെ ആരോ ഇല്ല എന്നതിനർത്ഥം ഇത് മാഗ്നിറ്റ്യുടും ഇത് rms മൂല്യവുമാണ് എന്നാണ് അതിനർത്ഥം rms മൂല്യം m√2 ന് തുല്യമാണ് ഈ ആംഗിൾ 0 o ആണ് ഇപ്പോൾ വോൾട്ടേജിന്റെ കാര്യത്തിൽ v Vm sinωtϕ ന് തുല്യമാണ് ഇത് ഫാസർ നൊട്ടേഷനിൽ എഴുതിയാൽ v → എന്നിരിക്കും ആരോ അടയാളം v → ഇടുന്നത് rms മൂല്യത്തിന് തുല്യമാണ് Vm√ 2 അപ്പോൾ ഇവിടുത്തെ ϕ ആയിരിക്കണം കാരണം ലീഡ് ചെയ്യുന്ന ആംഗിൾ ϕ ആണ് ഇത് യഥാർത്ഥത്തിൽ V ആംഗിൾ ϕ എന്ന് എഴുതാം V എന്നത് rms മൂല്യം ആണ് എന്നാൽ ഇവിടെ അമ്പടയാളമില്ല എന്നതിനർത്ഥം rms മൂല്യം മാഗ്നിറ്റ്യുഡിലാണ് എന്നാണ് അതിനാൽ vVm√2 ന് തുല്യമാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ V ആംഗിൾ ϕ ആണ് ഇപ്പോൾ ചോദ്യം അത് ആംഗിൾ 0 o ആണെങ്കിൽ v V ആംഗിൾ ϕ തുല്യമാണ് അപ്പോൾ ഞാൻ വെക്റ്റർ ഡയഗ്രാമിന്റെ ഫാസർ ഡയഗ്രം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഫേസർ ഒരു ഭ്രമണം ചെയ്യുന്ന വെക്റ്ററാണ് അത് മാത്രമാണ് വ്യത്യാസം അതിനാൽ ഇത് വരയ്ക്കുകയാണെങ്കിൽ 0 എന്നത് എന്റെ റഫറൻസ് ലൈൻ ആംഗിൾ ആണെന്നും ഇത് V ആംഗിൾ ϕ ആണെന്നും കരുതുക ഈ ആംഗിൾ ϕ ആയിരിക്കണം അതിന്റെ അർത്ഥം v യഥാർത്ഥത്തിൽ കറന്റിനെ Iangle ϕ കൊണ്ട് ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ v യെ റഫറൻസായി എഎടുത്തും നമുക്ക് എഴുതാം ഈ സാഹചര്യത്തിൽ അതും ϕ ഇത് വരയ്ക്കുമ്പോൾ ഇത് V ആണ് ഈ ആംഗിൾ ϕ ആണ് ഈ കോണിൽ തിരിക്കുക ഞങ്ങൾ ഇതിലേക്ക് വരും എന്നിട്ടു നീങ്ങും ഇത് ഇവിടെ ലാഗ് ചെയ്യുകയും V യെ ഒരു ആംഗിൾ ϕ ൽ ലാഗ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ നോക്കുകയാണെങ്കിൽ V ϕ എന്ന ആംഗിൾ ലീഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ Vϕ ലാഗ് ചെയ്യുന്നു എന്നും പറയാം അതിനാൽ ലീഡിംഗ് ലാഗ്ഗിംഗ് എന്നതിന്റെ ആശയമാണിത് അതിനർത്ഥം നമുക്ക് 2 തരംഗരൂപങ്ങളുണ്ടെങ്കിൽ ഏതാണ് ആദ്യം അവിടെ എത്തുന്നതെന്ന് നോക്കണം അത് ആദ്യം പീക്ക് വാല്യൂവിൽ എത്തിയാൽ അത് മറ്റേതിനെ ലീഡ് ചെയ്യുന്നു എന്ന് പറയാം അല്ലെങ്കിൽ മറ്റൊന്ന് 0 ലേക്ക് എത്തുന്നത് ലീഡിംഗ് അല്ലെങ്കിൽ തിരിച്ചും ഇവിടെ ഈ ചിത്രം നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാണ് ഇത് അടുത്ത 3 4 5 പേജുകൾക്കായി കുറച്ചുകൂടി വ്യക്തമായി എഴുതിയ കുറിപ്പുകളാണ് എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു അതിനാൽ ലാഗ് ചെയ്യുന്നതിനും ലീഡ് ചെയ്യുന്നതിനും ഉള്ള ആശയം ഇതാണ് അതിനാൽ ഈ ഡയഗ്രാമിൽ അവിടെ പറഞ്ഞതെന്തും അർത്ഥമാക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഞങ്ങൾ നിർമ്മിക്കുന്നു ആ v V ആംഗിൾ ϕ ആക്കി ആംഗിൾ 0 ന് തുല്യമാണെങ്കിൽ അതിനാൽ ഈ v നയിക്കുന്നു അല്ലെങ്കിൽV യിൽ നിന്ന് പിന്നിലാണ് നമ്മൾ v V ആംഗിൾ 0 റഫറൻസ് എടുക്കുകയാണെങ്കിൽ ആംഗിൾ ϕ ആയിരിക്കും ഈ 2 കാര്യങ്ങൾ ഒന്നുതന്നെയാണ് ഇവിടെയും v ആംഗിൾ 0 o ആണ് Vϕo യിൽ നിന്നോ അല്ലെങ്കിൽ v ലീഡ്സ് ബൈ ϕo യിൽ നിന്നോ ആയിരിക്കും ഇവിടെയും അതിനാൽ അതേ രീതിയിൽ എഴുതാം അതുകൊണ്ടാണ് ഇവിടെ Vmsin ωt എടുക്കുന്നത് ആ സാഹചര്യത്തിൽ കറന്റ് msinωt ϕ ഇവിടെ ϕ ക്കു പകരം ϕ ആണ് എടുക്കുന്നത് ഈ ലീഡിംഗ് അല്ലെങ്കിൽ ലാഗിംഗ് ആശയം എന്താണ് എന്ന ആശയമാണിത് ഇവിടെ നമുക്ക് കറന്റിനെയും റഫറൻസ് ഫേസർ ആയി എടുക്കാം ഇതാണ് V ഞങ്ങൾ ഈ വോൾട്ടേജ് റഫറൻസ് ഫാസറായി എടുക്കുന്നു ഇവിടെ v എന്നത് ϕ ആംഗിൾ ലീഡ് ചെയ്യുകയോ V ϕ ലാഗ് ചെയ്യുന്നതോ ആണ് ഇവിടെയും v ϕ ആംഗിൾ ലീഡ് ചെയ്യുകയോ ϕ അല്ലെങ്കിൽ V ϕ ലാഗ് ചെയ്യുന്നതോ ആണ് ഈ കേസിൽ കറന്റ് ആണ് റഫറൻസ് ഫേസറായി എടുക്കുന്നത് ഇവിടെ വോൾട്ടേജ് റഫറൻസ് ഫാസറായി എടുക്കുന്നതിനാലാണിത് ഇവിടെ കറന്റ് ഒരു റഫറൻസ് ഫേസറായി കണക്കാക്കപ്പെടുന്നു എന്നാൽ സംഖ്യാശാസ്ത്രം ചെയ്യുമ്പോൾ എല്ലാം ഒന്നുതന്നെയായിരിക്കും ഒരു മാറ്റവും ഉണ്ടാകില്ല ഇത് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് സൈനസോയ്ഡൽ തരംഗ രൂപീകരണം എന്നിവയുടെ ലാഗ് ലീഡും എന്ന ആശയമാണ് അടുത്തതായി വെക്റ്റർ അനാലിസിസ് ആണ് ഭൌതികശാസ്ത്രത്തിന് അറിയാം 2 ഫേസർ ക്വാണ്ടിറ്റികളുടെ കൂട്ടിച്ചേർക്കലും കുറയ്ക്കലും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത് എന്റെ V1 ആണെന്ന് കരുതുക ഇത് എന്റെ V1 ആണ് ഇത് ആംഗിൾ θ1 ഇത് V2 ആണ് കോണിന് θ2 നൽകിയിരിക്കുന്നു അതിനാൽ v A എന്നത് V1 V2 എന്നതിന് തുല്യമാണ് അത് ഫാസർ ആണ് അതിനാൽ ആ വെക്റ്റർ വിശകലനത്തെ വിളിക്കുക ഭൌതികശാസ്ത്രം ഒന്നുതന്നെയാണ് ഈ വരി ഒരു തിരശ്ചീന രേഖയാണ് ഇതൊരു റഫറൻസാണ് ഇവിടെയും ഇത് റഫറൻസാണ് ഇവിടെ അത് കുറയ്ക്കലാണ് അതിനാൽ എന്റെ ഫലം ഒന്നുതന്നെയാണ് ഇത് v എന്നത് കൂട്ടിച്ചേർക്കലിനെ സൂചിപ്പിക്കുന്നു ഇവിടെ Vs എന്നത് കുറയ്ക്കലിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് V1 ആണ് ഇത് V ആണ് Vs എന്തായിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തണം Vs V1 V2 ന് തുല്യമാണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും അതിനാൽ ഈ സാഹചര്യത്തിൽ 2 വഴികളുണ്ട് 1 വഴി ഇത് V2 ആണെങ്കിൽ ഈ വശം ആയിരിക്കും V2 ഇതിനർത്ഥം ഫേസർ തുകയോ വെക്റ്റർ തുകയോ ആണെങ്കിൽ ഇങ്ങിനെ ആയിരിക്കും വരിക അതിനാൽ Vs എന്നത് V1 V2 ന് തുല്യമാണ് മറ്റൊരു വിധത്തിൽ ഇത് V2 ആണെങ്കിൽ ഇതും ഇതാണ് ഇതിന് സമാന്തരമായി V2 എടുക്കാനും കഴിയും അതിനാൽ Vs V1 ഈ ദിശയും അമ്പും ഇവിടെയുണ്ട് അതിനാൽ ഇത് V2 ഒന്നുകിൽ അല്ലെങ്കിൽ ഈ വഴി പക്ഷേ ബീജഗണിത സംഖ്യ ആകാൻ കഴിയില്ല ഇത് ഫേസർ തുകയായിരിക്കും പിന്നീട് സംഖ്യ എടുക്കുമ്പോൾ അത് കാണും ഈ ഫേസർ ഒരു കോംപ്ലക്സ് നമ്പർ ആണ് ഒരു ഫാസറിന്റെ 3 തുല്യമായ നൊട്ടേഷനുകൾ ഉണ്ട് ഇതിനായുള്ള ഒരു വഴി പോളാർ ഫോം ഉപയോഗിക്കുക എന്നതാണ് ആദ്യം എഴുതുക v V ആംഗിൾ θ ന് തുല്യമാണെങ്കിൽ ഇവിടെ V എന്നത് മാഗ്നിറ്റ്യൂഡും θ ആംഗിളും ആണ് V ആംഗിൾ θ എന്നും എഴുതാം റെക്ടങ്കുലർ ഫോമിൽ എഴുതുകയാണെങ്കിൽ അത് v cos θ j Vs θ ആണ് കൂടാതെ V യെ നമുക്ക് ഇങ്ങിനെയും എഴുതാം V e jθ ആണ് e jθ എന്നത് cos θ j sin θ എന്നതിന് തുല്യമാണ് കൂടാതെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇ jθ എന്നത് cos θ j sin equal ന് തുല്യമാണ് പിന്നെ ഇത് ആംഗിൾ θ ആണ് മറ്റൊരു കാര്യം ഓപ്പറേറ്റർ j നമുക്ക് ഒരു 90 o കൌണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യുന്നു ഏത് ഫേസറിലും ഇത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആയി പ്രയോഗിക്കുന്നു എന്നാൽ നമുക്കറിയാം j2 1 ന് തുല്യമാണ് അതിനാൽ ഓപ്പറേറ്റർ j ഏതെങ്കിലും ഫേസറിന്റെ 90o എതിർ ഘടികാരദിശയിലുള്ള ഭ്രമണം ഉത്പാദിപ്പിക്കുന്നു അത് ഒരു ഗുണന ഘടകമായി പ്രയോഗിക്കുന്നു അതിനർത്ഥം j2 1 തുല്യമാണ് ഇത് x ആണ് റിയൽ ആക്സിസ് ആണ് ഇത് ഇമാജിനറി ആക്സിസ് ആണ് അതിനാൽ j എന്നത് ഇമാജിനറി ആക്സിസിൽ ഉള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ j 2 1 തുല്യമാണ് ഇനി j3 ന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ j3 j ആണ് കാരണം ഇത് യഥാർത്ഥത്തിൽ j3 j2 j ആണ് j2 1 എന്നത് ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ് അതിനാൽ j3 j ആണ് ഇനി നമുക്ക് j4 ന്റെ മൂല്യം നോക്കാം അത് 1 പോലെ ആയിരിക്കും ഏത് കോൾ ക counterണ്ടറിനെയാണ് എതിർ ഘടികാരദിശയിൽ വിളിക്കുന്നത് ഇത് ഇതാണ് ഈ v cos θ എടുക്കുകയാണെങ്കിൽ ഇത് x ഘടകമാണ് v cos is v cos θ ഇവിടെ തുല്യമാണ് v x എന്ന് പറയുക s ലെ Vs ഇതാണ് ഇതാണ് Vy V ലെ Vs ന് തുല്യമാണ് ഇതിന്റെ ഫലമാണ് v അതിനാൽ അടിസ്ഥാനപരമായി v എന്നത് Vv cos θ j Vs θ അതിനർത്ഥം v എന്നത് v x j Vy ന് തുല്യമാണ് എന്നാണ് അതിനാൽ ഒരു ഫേസറിന്റെ റെക്ടങ്കുലർ ഫോം കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ സൌകര്യപ്രദമാണ് റെക്ടങ്കുലർ ഫോം ഉണ്ടാക്കുമ്പോൾ ഈ രൂപം എന്നാണ് അർത്ഥമാക്കുന്നത് ആ കൂട്ടിച്ചേർക്കലും കുറയ്ക്കലും സഹായകമാകും ഈ പോളാർ ഫോം ഒരു ഫേസറിന്റെ 2 ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ സൌകര്യപ്രദമാണ് അതായത് മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും ആണ് കാരണം ഈ v എന്നത് ഒരു മാഗ്നിറ്റ്യൂഡ് ആണ് θ ആംഗിൾ ആണ് അതിനാൽ നമുക്ക് അത് വ്യക്തമാക്കാം കൂടാതെ ഗണിതത്തിൽ നിന്ന് സങ്കീർണ്ണ സംഖ്യയുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കം ഇവിടെ V1 V1 e jθ1 ന് തുല്യമാണെന്ന് കരുതുക V2 e jθ2 ആണ് അപ്പോൾ ഇത് ഗുണിച്ചാൽ ഇവിടെ V1 e jθ1 V2 e jθ2 അതിനാൽ ഇത് യഥാർത്ഥത്തിൽ V1 V2 തുടർന്ന് e jθ 1 θ2 ആണ് അതിനാൽ അത് യഥാർത്ഥത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു ഇത് V1 ആംഗിൾ θ1 θ2 എന്ന് എഴുതാം അതായത് ഏത് കോണും ejθ എന്ന് എഴുതാം അതിനാൽ ഇവിടെ ആംഗിൾ θ1 θ2 e jθ 1 θ2 ന് തുല്യമാണ് ഇവിടെയാണ് ഇത് തുല്യമായി എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ഇത് ബ്രാക്കറ്റിൽ V1 V2 cos θ j sin θ1 θ2 ആണ് അതിനാൽ ഇത് ഇതുപോലെ എഴുതാം യഥാർത്ഥത്തിൽ V1 V2 എന്നത് മാഗ്നിറ്റുടും θ1 θ2 യഥാക്രമം V1 V2 എന്നിവയുടെ കോണുകളാണ് അതുപോലെ V1 V2 ആണ് ഇവിടെ ഇത് V1 V2 ആക്കുന്നു അതായതു e jθ 1 e jθ2 ഇത് വിഭജനമാണ് അതിനാൽ ഇത് ഇങ്ങിനെ എഴുതാം e jθ1 θ2 ഇത് V1 ആണ് ഇത് V2 ആണ് ഇത് V1 V2 e jθ1 θ2 ന് തുല്യമാണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും ആംഗിൾ θ1 θ2 അതായത് ഇത് V1 V2 cos θ1 θ2 j sinθ1 θ2 ആയിരിക്കും അതിനാൽ ഇപ്പോൾ ചില സൂക്ഷ്മതകൾ ഇവിടെ എഴുതിയിരിക്കുന്നു AC യിൽ വോൾട്ടേജിന്റെയും കറന്റിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കേണ്ടത് ഫേസർ അളവുകളാണെന്ന കാര്യം മനസ്സിൽ വച്ചുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതുന്നത് അതായതു അൾജിബ്രൈക് മാനിപുലേഷൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയി റെപ്രെസെന്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളു അതിനാൽ അടുത്തത് ഉദാഹരണത്തിന് ഫേസർ പോലെ തരംഗമായി ഇനിപ്പറയുന്ന വൈദ്യുതധാര കൂട്ടിച്ചേർക്കുന്നു അതിനാൽ ഈ കേസിൽi1 5 sin ω t എ i2 10sinω t 60 o ന് തുല്യമാണ് ഇപ്പോൾ i1 i2 5sinω t 10 sinω t 60 o ആയിരിക്കും അതിനാൽ 5 sinω t അവിടെയുണ്ട് അത് 10 sinω t ഒരു sinacobbcosasinb വിശദീകരിച്ചിരിക്കുന്നു അതിനാൽ ലളിതമാക്കിയതിന് ശേഷം അത് 10 sinω t 8 66 cos ω t ആകും ഇപ്പോൾ എന്തു ചെയ്യും ഇത് യഥാർത്ഥത്തിൽ ഈ 10 ഉം 8 6 ഉം 10 2 √ 8 66 2 കണ്ടുപിടിക്കുക അത് 13 23 പറയുന്നു അതിനാൽ ഈ അളവ് 13 23 എന്ന് വിളിക്കുന്നതിനെ വിഭജിച്ച് ഗുണിക്കുക ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 10 13 66 13 23 മുതൽ 13 23 വരെ ആണ് ഉള്ളത് അതിനാൽ ഇത് 10 ആണ് ഇത് 8 6 ആണ് ഇത് 13 2 10 ഇത് ഒരു α ആണ് ഇതിനർത്ഥം cos α 10 13 23 തുല്യമാണ് അതുകൊണ്ടാണ് cos എന്ന് എഴുതിയിരിക്കുന്നത് cos 1013 23 ന് തുല്യമാണ് 66 13 23 ന് തുല്യമാണ് അതുകൊണ്ടാണ് ഇവിടെ cos sin മാറ്റിസ്ഥാപിക്കപ്പെടുന്നത് എന്നിട്ടു ഇത് 13 23 കൊണ്ട് ഗുണിച്ചു അപ്പോൾ നമുക്ക് sin a cos b cos a sin b എന്ന രൂപത്തിൽ ലഭിക്കും 13 23 sin 40 9 o അത് 13 9o ആണ് കാരണം cos 10 10 13 23 40 9o ആയിരിക്കും അതിനാൽ α 40 9 o ന് തുല്യമാണ് ഇപ്പോൾ ഇതാണ് പീക്ക് മൂല്യം ഇത് ഏറ്റവും ഉയർന്ന മൂല്യമാണെങ്കിൽ ഇത് rms മൂല്യമാണ് അതിനാൽ നമുക്ക് ഈ കാര്യം rms മൂല്യത്തിൽ ചെയ്യാം അതിനാൽ i1 rms 5 √ 2 ആമ്പിയറിന് തുല്യമായിരിക്കണം i2 ന്റെ rms മൂല്യം 10 √ 2 ആണ് അതിനാൽ ഇത് 5√2 ആമ്പിയറും 10 √ 2 ആമ്പിയറുമാണ് ഇപ്പോൾ ഈ കേസിൽ ഈ sin ω t എന്നാൽ അടിസ്ഥാനപരമായി അതിൽ ωt 0o എന്നതുമായി ബന്ധപ്പെട്ട ഒരു കോണും ഇല്ല എന്നാണ് അതിനർത്ഥം ആർക്കും ഇത് എഴുതാൻ കഴിയും പറയുക i1 ന്റെ rms മൂല്യം 5 √ 2 ആംഗിൾ 0 o ആണ് അതുപോലെ ഇവിടെ ആംഗിൾ 60o ഘടിപ്പിച്ചിരിക്കുന്നു അതായത് i 10 √ 2 ആംഗിൾ 60 o ന് തുല്യമാണ് കാരണം അവിടെ 60 o ഉണ്ട് ഇതിനർത്ഥം ഈ i2 യഥാർത്ഥത്തിൽ i1 60o നെ നയിക്കുന്നു കാരണം ആംഗിൾ പോസിറ്റീവ് 60 o ആണ് അത് അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ് ഈ സൈൻ പദവുമായി എന്തെങ്കിലും പദം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം ഇത് ഒരു ഉയർന്ന മൂല്യമാണ് ഇതിന്റെ rms മൂല്യം എടുക്കാൻ അതിനെ √ 2 ആയി വിഭജിക്കേണ്ടതുണ്ട് കാരണം ഇനി മുൻപോട്ടുള്ള കാല്കുലേഷൻസ് എല്ലാം rms വാല്യൂവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഇതാണ് ഈ ഡയഗ്രം അതിനാലാണ് ഈ 5 √ 2 ആംഗിൾ 0 ഇത് റഫറൻസ് ആണ് മറ്റൊന്ന് 10 √ 2 ഇത് 10 √ 2 ഉം ഇത് 60 o ഉം അതിനാൽ ഇത് rms മൂല്യമായി കണക്കാക്കപ്പെടുന്നു ഇഇതാണ് ഇവിടുത്തെ റിസൽറ്റന്റ് ഇത് 13 23 √ 2 ആണ് കാരണം ഇവിടെയും ഇത് 13 പോയിന്റ് √ 3 ആണ് അത് rms മൂല്യമാണ് ഇത് യഥാർത്ഥത്തിൽ 13 23 √ 2 ആണ് ഇത് ആംഗിൾ 40 9o ആണ് അതിനാൽ ഈ 1 40 9o നെ നയിക്കുന്ന ഈ ഫലമായ വൈദ്യുതധാര i2 നോട് ഈ കോണിനെ നയിക്കുന്നു ഈ കാര്യം ഈ i1 60o എന്ന് വിളിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഫേ സർ ഡയഗ്രമാണ് ഇപ്പോൾ x ആക്സിസിൽ ഒരു പ്രൊജക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനാൽ ഇത് റഫറൻസായിരിക്കും അതിനാൽ 5 √ 2 യഥാർത്ഥത്തിൽ എല്ലായിടത്തും √2 വരും അതുകൊണ്ടാണ് ഈ √2 പുറത്ത് കൊണ്ടുപോകുന്നത് ഈ 10 √ 2 √ 2 പുറത്താണ് cos 60 o ഇതും ഇതും ഇതാണ് x അക്ഷത്തിലെ പ്രൊജക്ഷനുള്ള x ആണ് അത് ചെയ്താൽ 10 √ 2 ആണ് അതുപോലെ y ആക്സിസ് പ്രൊജക്ഷന് ഇത് 1√2 ആയിരിക്കും ഇത് റഫറൻസ് കാര്യമാണ് അതിനാൽ ഇത് ഒരു പ്രൊജക്ഷണൽ വൈ ആക്സിസ് 0 അല്ലാതെ മറ്റൊന്നുമല്ല ഇത് 10 sin 60 ആണ് കാരണം ഈ ആംഗിൾ y ആക്സിസ് പ്രൊജക്ഷൻ 10 sin 60 8 66 √ 2 ആണ് ഇപ്പോൾ√x 2 y y2 ന് മുകളിലായിരിക്കും അതിനാൽ അത് 1 √ 2 ആണ് 10 10 2 8 66 2 ന് മുകളിലായിരിക്കും അത് 13 23√2 ആയിത്തീരും ഇവിടെ എന്തെഴുതിയാലും 13 പോയിന്റ് √ 32 ആണ് കൂടാതെ α tan 1 σyσx ആണ് tan 1 8 9 o അതിനാൽ 13 23 sin t ഇത് പരമാവധി മൂല്യം 13 9 o ഇതാണ് ഫേസർ ഡയഗ്രം വരച്ചത് അതിനാലാണ് rms മൂല്യം എടുക്കുന്നത് നന്ദി